ഈ കോഴ്സിൽ ഇത് വരെ നിങ്ങൾ ബൌദ്ധിക സ്വത്തവകാശത്തെ കുറിച്ച് ഒരു പൊതു ആമുഖം മനസിലാക്കി അടിസ്ഥാനപരമായ ചില ബൌദ്ധിക സ്വത്തവകാശങ്ങളുടെ വിശദാംശങ്ങളും നമ്മൾ മനസിലാക്കി പേറ്റന്റുകൾ വ്യാപാരമുദ്രകൾ പകർപ്പവകാശം ഡിസൈനുകൾ എന്നിവ എന്താണെന്ന് നമ്മൾ കണ്ടു സർവ്വകലാശാലയുടെ സംരംഭക പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു സംരംഭക പ്രവർത്തനം സർവ്വകലാശാലയുടെ ഗവേഷണ പ്രവർത്തനത്തിൽ നിന്നാണ് വരുന്നതെന്നും ഗവേഷണ പ്രവർത്തനം തന്നെ ബൌദ്ധിക സ്വത്തവകാശത്താൽ പരിരക്ഷിക്കാവുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും കാരണമാകുമെന്നും നമ്മൾ മനസിലാക്കി കണ്ടെത്തെലുകൾക്കായി തിരച്ചിൽ നടത്തേണ്ടത് എവിടെയാണെന്നും എങ്ങെനെയാണെന്നും നമ്മൾ മനസിലാക്കി ഒരു കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പേറ്റന്റെബിലിറ്റി തിരച്ചിൽ എന്ന് വിളിക്കുന്ന ഓഡിറ്റിനെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചു അവസാനമായി ഐ പി കേന്ദ്രങ്ങളുടെ പങ്കിനെക്കുറിച്ചും നമ്മൾ പ്രതിപാദിച്ചു ഈ പ്രഭാഷണത്തിൽ നമുക്ക് ഐ പി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് മനസിലാക്കാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതായത് ഒരു സർവ്വകലാശാലയോ കോളേജോ ബൌദ്ധിക സ്വത്തവകാശ കേന്ദ്രങ്ങളോ ഐ പി കേന്ദ്രങ്ങളോ സ്ഥാപിക്കുന്നതിനെ എപ്രകാരമാണ് നോക്കി കാണുന്നത് എന്നും നമുക്ക് മനസിലാക്കാം നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം സർവകലാശാലകൾക്ക് ഐ പി കേന്ദ്രങ്ങൾ ആവശ്യമുണ്ടോ എന്നതാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഐ പി കേന്ദ്രങ്ങൾ വേണ്ടത് ബൌദ്ധിക സ്വത്തവകാശത്തിന് ഗവേഷണത്തിന്റെ ഔട്ട് പുട്ട് സംരക്ഷിക്കാൻ കഴിയുമെന്നതിനാലും ഗവേഷണം ഒരു സർവകലാശാലയിലെ അവിഭാജ്യ പ്രവർത്തനമായതിനാലും വാണിജ്യവത്കരിക്കാവുന്ന ഗവേഷണത്തിന്റെ ഔട്ട് പുട്ട് കൈകാര്യം ചെയ്യേണ്ടതിന് ഐ പി കേന്ദ്രങ്ങൾ ആവശ്യമാണ് അതിനാൽ ആദ്യമായി സർവ്വകലാശാലകൾ ഗവേഷണം നടത്തുന്നതിനാൽ നിങ്ങൾക്ക് വാണിജ്യ മൂല്യമുള്ള ഗവേഷണ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കാം അത് കൈകാര്യം ചെയ്യാനും ഭദ്രമായി സൂക്ഷിക്കാനും നിങ്ങൾക്ക് ഐ പി കേന്ദ്രങ്ങൾ ആവശ്യമാണ് രണ്ടാമത് റാങ്കിങ്ങ് ആണ് എൻ ഐ ആർ എഫ് എ ആർ ഐ ഐ എ റാങ്കിങ്ങ് തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഈ റാങ്കിങ്ങ് ചട്ടക്കൂടുകൾ പേറ്റന്റിംഗിനെയും പേറ്റന്റുകൾ വാണിജ്യവത്ക്കരിക്കുന്നതെങ്ങനെയെന്നതിനെയും നോക്കുന്നു മൂന്നാമതായി നിങ്ങൾക്ക് റെഗുലേറ്റർമാരും നിയന്ത്രണങ്ങളും ഉണ്ട് യു ജി സി എ ഐ സി ടി ഇ എൻ എ എ സി മുതലായവ ഐപി കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേറ്റന്റുകൾ ഫയൽ ചെയ്യണമെന്നും വാണിജ്യവത്ക്കരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നാലാമതായി ഇത് ആന്തരികമായ ഒരു ആവശ്യകതയാണ് നിങ്ങൾ ഐ പി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഐ പി കേന്ദ്രങ്ങൾ ലാഭകേന്ദ്രങ്ങളാകാം അവ ലാഭകേന്ദ്രങ്ങളാകുമ്പോൾ അതിലൂടെ സർവകലാശാലയ്ക്ക് വരുമാനം ഉണ്ടാകുന്നു അമേരിക്കയിലെ ചില ഇടങ്ങളിൽ ഐ പി കേന്ദ്രങ്ങൾ പേറ്റന്റുകൾ തിരിച്ചറിയുന്നതിലൂടെ ദശലക്ഷകണക്കിന് ഡോളർ വരുമാനമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ് ആദ്യം നമുക്ക് എൻ ഐ ആർ എഫ് എന്താണെന്ന് നോക്കാം എൻ ഐ ആർ എഫ് നാഷണൽ ഇന്സ്ടിട്യൂഷണൽ റാങ്കിങ്ങ് ഫ്രെയിംവർക്കിനെ സൂചിപ്പിക്കുന്നു ഇത് 2017 ലെ റാങ്കിങ്ങ് പാരാമീറ്ററുകളുടെയും വെയിറ്റേജിന്റെയും സംഗ്രഹമാണ് ഗവേഷണത്തിനും പ്രൊഫഷണൽ പരിശീലനത്തിനും പ്രതേക വെയിറ്റേജ് ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അഞ്ച് പാരാമീറ്ററുകൾ നിങ്ങൾ ശ്രദ്ധിക്കയാണെങ്കിൽ വെയിറ്റേജിന്റെ ഭൂരിഭാഗവും ഗവേഷണത്തിനും തൊഴിൽപരമായ പരിശീലനത്തിനും വേണ്ടിയാണ് എന്ന് മനസിലാകും ഗവേഷണത്തിലും പ്രൊഫഷണൽ പരിശീലനത്തിലും സാധാരണയായി നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ഘടകങ്ങളാണ് ഐ പി ആറും പേറ്റന്റുകളും അവയുടെ അനുമതി ഫയലിങ്ങ് ലൈസൻസ് മുതലായവയും ഇത് മാത്രമാണ് റാങ്കിങ്ങിന് പ്രസക്തമായേക്കാവുന്ന ഘടകം എന്നല്ല പറയുന്നത് എന്നാൽ മറ്റ് പാരാമീറ്ററുകളെയും ബാധിച്ചേക്കാവുന്ന വിവിധ ഘടകങ്ങളിൽ ബൌദ്ധിക സ്വത്തവകാശം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ബൌദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ കോഴ്സ് അവതരിപ്പിക്കാം അത് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയും അവർക്ക് വിപണിയിൽ ജോലി നേടുന്നതിന് സഹായകമാകുന്ന ഒരു കാര്യവുമായിരിക്കും അതിലൂടെ ഇത് നിങ്ങളുടെ റാങ്കിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യവുമായി വീണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഐ പി സെന്ററുകൾ സജ്ജീകരിക്കാനും ഐ പി സെന്ററുകൾ കണ്ടെത്തലുകളെ വാണിജ്യവത്ക്കരിക്കാനുള്ള ഒരു സ്രോതസ്സായി മാറാനും കണ്ടെത്തലുകൾ വാണിജ്യവത്ക്കരിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് ഗവേഷണത്തിന് കൂടുതൽ വരുമാനമുണ്ടാക്കാനും ഗവേഷണത്തിന് കൂടുതൽ വരുമാനം ലഭ്യമായതിനാൽ മറ്റ് പാരാമീറ്ററുകളെ തൃപ്തിപ്പെടുത്താനും കഴിയും അതിനാൽ ബൌദ്ധിക സ്വത്തവകാശം സ്ഥാപിക്കുന്നത് ഐ പി ആറിനും അനുവദിക്കപ്പെട്ടതും ഫയൽ ചെയ്യപ്പെട്ടതും ലൈസൻസ് ചെയ്യപ്പെട്ടതുമായ പേറ്റന്റുകൾക്കും അതീതമായ ഫലമുളവാക്കുന്നു അതിന്റെ പ്രഭാവം ഇവയ്ക്ക് അതീതമാണ് മറ്റൊരു റാങ്കിങ്ങ് ചട്ടക്കൂടാണ് അടൽ റാങ്കിങ്ങ് ഓഫ് ഇന്സ്ടിട്യൂഷൻസ് ഓൺ ഇന്നോവേഷൻ അച്ചീവ്മെൻറ്സ് ഇവിടെയും അവർ പരിഗണിക്കുന്ന പ്രധാന ഘടകങ്ങൾ അവബോധം വർദ്ധിപ്പിക്കുന്നതും ആശയം ഉത്ഭവിപ്പിക്കുന്നതും നവീകരണത്തെ പിന്തുണയ്ക്കുന്നതുമാണ് അതിനാൽ നിങ്ങൾ എത്ര വർക്ക്ഷോപ്പുകൾ നടത്തുന്നു നിങ്ങൾ എത്ര ഫോറങ്ങൾ തുറക്കുന്നു നിങ്ങൾക്ക് ആശയങ്ങൾ എപ്രകാരം ശേഖരിക്കാനും പരിശോധിക്കാനും കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ARIIA ചട്ടക്കൂടിന് കീഴിലുള്ള റാങ്കിങ്ങിനെ ബാധിക്കുക സംരംഭകവികസനത്തിന്റെ പ്രോത്സാഹനവും പിന്തുണയും ഒരു ഗവേഷണ ടീമിനെ വളരെയധികം പേറ്റന്റുകൾ ഫയൽ ചെയ്യാൻ സഹായിക്കുന്ന ഐ പി കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ഒരു കമ്പനിയെ ഇൻകുബേറ്റ് ചെയ്യാൻ കഴിയും കമ്പനിയെ ഒരു പ്രത്യേക സ്ഥാപനമായി സ്വീകരിക്കാനും ഗവേഷണ സംഘത്തിന് കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ അതും ആകാം സംരംഭകത്വ വികസനത്തിന്റെ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ബൌദ്ധികസ്വത്തവകാശ ഉത്പാദനത്തിന്റെ സാങ്കേതിക കൈമാറ്റവും വാണിജ്യവൽക്കരണവും കണക്കിലെടുക്കേണ്ട സൂചകങ്ങളാണ് എന്താണ് ഒരു ഐ പി സെന്റർ ഐ പി സെന്റർ പല പേരുകളിൽ അറിയപ്പെടുന്നു ഇതിനെ ഐ പി സെന്റർ എന്നും ചില സ്ഥലങ്ങളിൽ ഐ പി എം സെൽ എന്നും വിളിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇതിനെ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ടെക്നോളജി ലൈസൻസിംഗ് ഓഫീസ് എന്നും വിളിക്കുന്നു ഏതു പേരിലായാലും അവർ ഒരേ പ്രവർത്തനം നിർവഹിക്കുന്നു ഒരു ഐ പി കേന്ദ്രത്തെ അതിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ബൌദ്ധിക സ്വത്തവകാശ കേന്ദ്രത്തിന്റെ മിനിമം ആവശ്യകതകൾ കൈകാര്യം ചെയ്യുന്നടത്തോളം നിങ്ങൾ ഏതു പേരിൽ അതിനെ നിങ്ങൾ വിളിച്ചാലും പ്രശ്നമില്ല അതിനെ ഒരു ഐ പി സെന്റർ എന്നോ ഐ പി എം സെൽ എന്നോ വിളിക്കാം ചുരുക്കത്തിൽ അത് ബൌദ്ധിക സ്വത്തവകാശം കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമോ ഓഫീസോ ആണ് ബൌദ്ധിക സ്വത്തവകാശം കൈകാര്യം ചെയ്യുക എന്നത് വിശാലമായ ഒരു പദമാണ് അതിൽ ബൌദ്ധിക സ്വത്തവകാശം തിരിച്ചറിയുക ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ യോഗ്യതാനിർണ്ണയം നടത്തുക ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണം ഐ പി പരിപാലനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഐ പി കേന്ദ്രത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം എന്നാൽ വിശാലമായി ഈ അവബോധവും ഐ പി വിദ്യാഭ്യാസവും സർവ്വകലാശാലകൾ ഇതിനകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അവർ ഒരു വിദഗ്ദ്ധ പ്രഭാഷകനെ ക്ഷണിച്ചേക്കാം അവർ വർക്ക് ഷോപ്പുകൾ നടത്താം അവർക്ക് സർവകലാശാലയിൽ അവബോധത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം കൂടാതെ ഐ പി സെന്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവകലാശാലകളിൽ ഇവയെല്ലാം ഇപ്പോൾ നടക്കുന്നു പേറ്റന്റ് തിരച്ചിൽ സ്ക്രീനിംഗ് അല്ലെങ്കിൽ ഐ പി ഇന്റലിജൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഐ പി കേന്ദ്രത്തിന് മാത്രമേ കഴിയൂ ഐ പിയുടെ യോഗ്യതാനിർണ്ണയം അല്ലെങ്കിൽ ഐ പി ഇന്റലിജൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ചെയ്യാൻ മറ്റൊരാളെ പകരം നിയോഗിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൂന്നാം കക്ഷിക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാൻ കഴിയില്ല അവിടെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കേന്ദ്രം സജ്ജീകരിക്കേണ്ടതിന്റെ പ്രസക്തി രണ്ടാമതായി ഐ പിയുടെ സ്ക്രീനിംഗ് അല്ലെങ്കിൽ ഞങ്ങൾ ഐ പി ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു ഐ പി രജിസ്ട്രേഷൻ ഐ പി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബൌദ്ധിക സ്വത്തവകാശം ഫയൽ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുമാനിക്കുന്നു മൂന്നാം കക്ഷി സേവന ദാതാക്കളുമായി സഹകരിച്ചാണ് സാധാരണയായി ഇത് ചെയ്യുന്നത് സർവകലാശാലകൾക്ക് ഇത് ആന്തരികമായി ഫയൽ ചെയ്യാൻ കഴിയും എന്നതിന് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ അതിന് വ്യത്യസ്ത തരം സജ്ജീകരണവും വ്യത്യസ്ത തരം പ്രൊഫഷണലുകളുടെ സേവനവും ആവശ്യമാണ് ഇപ്രകാരം അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് സർവകലാശാലയ്ക്കുള്ളിൽ ഒരു പേറ്റന്റ് ഏജന്റ് ഉണ്ടായിരിക്കണം അതിന് ശേഷം ഐ പി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ അത് പുതുക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ അത് നടപ്പിലാക്കുന്നത് തുടരുകയും ലൈസൻസ് നൽകി വരുമാനം നേടിക്കൊണ്ട് വാണിജ്യവത്ക്കരിക്കുകയും വേണം ഐ പി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ ഐ പി തിരിച്ചറിയുക ഐ പി ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന ഐ പി സ്ക്രീനിംഗ് നടത്തുക ഐ പി പരിരക്ഷിക്കുക ഐ പി പരിപാലിക്കുക എന്നിങ്ങനെ വിശാലമായി തരംതിരിക്കാം നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ടെങ്കിൽ ഇതിനകം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഐ പി കേന്ദ്രം ഉണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ ഐ പി കേന്ദ്രത്തിന് തത്തുല്യമായി ഇത്തരം സേവനങ്ങൾ നൽകുന്ന ഏതെങ്കിലും മൂന്നാം കക്ഷിയുമായി നിങ്ങളുടെ സ്ഥാപനം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അനുമാനിക്കാം ഒന്നാമത്തെ കാര്യം പരിശോധിക്കാം ഐ പി വിദ്യാഭ്യാസം എന്നതാണ് അത് ഇത് ഐ പി കേന്ദ്രം നിർവഹിക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഐ പി വിദ്യാഭ്യാസം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ബോധവത്കരണം നൽകുക എന്നതിനെയാണ് ബോധവൽക്കരണത്തിലൂടെ ഐ പി ആറിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയും ഇത് മിക്ക ഐ പി കേന്ദ്രങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇത് ഐ പി കേന്ദ്രത്തിനുള്ളിൽ വിദഗ്ധരുള്ളത് കൊണ്ട് ആളുകൾ തങ്ങളുടെ പ്രവർത്തനമേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ നിവാരണത്തിനായി ഐ പി കേന്ദ്രത്തെ സമീപിക്കാം ബോധവത്കരണത്തിന്റെ ഭാഗമായി ഐ പി കേന്ദ്രത്തിന് ആശയങ്ങളും വിവരങ്ങളും കൈമാറുന്നതിനുള്ള ഒരു വേദിയായി പ്രവർത്തിക്കാനാകും വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഭാഗത്തെ മൂന്നായി തിരിക്കാം ഒന്ന് ഐ പിയെ ക്കുറിച്ചുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു വ്യത്യസ്ത തരം ഐ പിയെ കുറിച്ചും അവയെ എങ്ങനെ വേർതിരിച്ചറിയാം തിരിച്ചറിയാം എന്നിവയെകുറിച്ചുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ കോഴ്സിന്റെ ആദ്യ രണ്ടാഴ്ചകളിൽ ഞങ്ങൾ കവർ ചെയ്തതാണ് ഐ പിയുടെ അടിസ്ഥാന തരങ്ങൾ തിരിച്ചറിയാനും അതിന്റെ വ്യത്യസ്ത പഠനമേഖലയെ കുറിച്ച് വ്യക്തമായി അറിയുന്നതിന് ഇത് സഹായകമാകും ഐ പി യുടെ ചലനാത്മകമായ രീതികൊണ്ടും അത് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും സാങ്കേതികവിദ്യയിലെ പുരോഗമനം ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പുരോഗമനത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതുകൊണ്ടും ഐ പി യുടെ അടിസ്ഥാനവിദ്യാഭ്യാസത്തെക്കാൾ തുടർവിദ്യാഭാസത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് മറ്റ് മേഖലകളിൽ ആവശ്യമില്ലാത്തതും എന്നാൽ ഐ പി വിദ്യാഭാസമേഖലയ്ക്ക് സവിശേഷമായതുമാണ് ഈ തുടർവിദ്യാഭ്യാസം ബൌദ്ധിക സ്വത്തവകാശത്തിലെ പുതിയ സംഭവവികാസങ്ങളെ നിരീക്ഷിക്കുക്കുന്നതിന് ഐ പി കേന്ദ്രങ്ങൾ തുടർവിദ്യാഭ്യാസത്തിൽ പങ്കാളികൾ ആകേണ്ടതുണ്ട് ഐ പി വിദ്യാഭ്യാസത്തിന്റെ മൂന്നാം ഭാഗം പുരോഗമനപരമായ ഐ പി വിദ്യാഭ്യാസമാണ് ഐ പി കേന്ദ്രങ്ങൾക്ക് ഇത് നൽകാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ ഇത് സർവകലാശാലയ്ക്കുള്ളിൽ അർത്ഥപൂർണമായി നടത്താവുന്ന ഒന്നാണ് പ്രൊഫസർമാർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിൽ സംബന്ധിയായ കാര്യങ്ങളും ബൌദ്ധിക സ്വത്തവകാശ പരിപാലനവും നടത്താൻ പുരോഗമനപരമായ ഐ പി വിദ്യാഭാസത്തിന് കഴിയും ആരെങ്കിലും ഒരു ഐ പി പ്രൊഫഷണലാകാനോ രജിസ്റ്റർ ചെയ്ത പേറ്റന്റ് ഏജന്റാകാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഐ പിയിൽ പുരോഗമനപരമായ വിദ്യാഭ്യാസം ആവശ്യമാണ് അതിനാൽ നമുക്ക് ഐ പി വിദ്യാഭ്യാസത്തെ മൂന്ന് തലങ്ങളിൽ നിന്ന് നോക്കിക്കാണാൻ സാധിക്കും ഒന്ന് ഇതുപോലുള്ള ഓൺലൈൻ കോഴ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമാണ് മറ്റൊന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട തല്പരകക്ഷികളുമായി നിരന്തരമായ ഇടപെടൽ ആവശ്യമായി വരുന്ന തുടർവിദ്യാഭ്യാസമാണ് ആശയവിപുലീകരണം ഉണ്ടാകുന്നതനുസരിച്ച് അത് അഭിസംബോധന ചെയ്യുകയും ആളുകളെ പരിശീലിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടിവരും ഇത് കൂടാതെ ബൌദ്ധിക സ്വത്തവകാശ മേഖലയിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉപകാരപ്രദമാകുന്ന തൊഴിൽ നേടാൻ സഹായകമായ പുരോഗമനപരമായ കോഴ്സുകളും ഉണ്ട് അതായത് ഐ പി കേന്ദ്രം ഐ പി ബോധവത്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവ ഐ പി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നു രണ്ടാമത്തെ പ്രവർത്തനം ഐ പി ഇന്റലിജൻസിനെ കുറിച്ചുള്ളതാണ് ഐ പി ഇന്റലിജൻസ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമായത് കൊണ്ട് ഇത് നിങ്ങൾ ഗൌരവ്വപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇന്റലിജൻസ് ചെയ്യാൻ കഴിയുന്ന മൂന്നാം കക്ഷികളെ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല അത് നിരന്തരമായി ചെയ്യണ്ടതുമുണ്ട് അതിനാൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഒരു വ്യക്തിയെ ക്ഷണിക്കുകയോ വർക്ക് ഷോപ്പ് നടത്തുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം അഭിസംബോധന ചെയ്യപ്പെടണം എന്നില്ല അത് ഐ പി കേന്ദ്രം തന്നെ നടത്തേണ്ട പ്രവർത്തനമാണ് ഒന്ന് വാണിജ്യ മൂല്യമുള്ള ഗവേഷണ ഫലങ്ങൾ ഇതിന് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഗവേഷണ ഫലങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിനുള്ളിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാകാം അത് ഒരു ഗവേഷണ പ്രോജക്റ്റിൽ നിന്നാകാം ഒരു കൺസൾട്ടൻസി പ്രോജക്റ്റിൽ നിന്നോ വ്യവസായമേഖലയിലെ ഒരു ക്ലയന്റും സർവകലാശാലയും തമ്മിലുള്ള ആശയവിനിമയത്തിൽ നിന്നോ ആകാം അതായത് ഇത് വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്നും ആകാം എന്നർത്ഥം എന്നാൽ അവയെ തിരിച്ചറിയുകയും വാണിജ്യമൂല്യം പരിശോധിക്കുകയും ചെയ്യണ്ടത് സർവകലാശാലയാണ് മിക്ക സർവ്വകലാശാലകളിലും നിങ്ങൾക്ക് പൂരിപ്പിച്ച് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോം ഉണ്ടായിരിക്കും കണ്ടെത്തൽ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആന്തരിക പരിശോധന നടത്തുന്നത് ഐ പി കേന്ദ്രമായിരിക്കും എന്നാൽ ഐ പി കേന്ദ്രം ഇല്ലെങ്കിൽ അത് ഒരു ഒരു മൂന്നാം കക്ഷി സേവന ദാതാവിന് അയച്ചുകൊടുക്കും ഐ പി മിക്കവാറും പ്രസിദ്ധീകരണങ്ങൾക്കുള്ളിലായിരിക്കാം അത് ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഇത് പേറ്റന്റ് നിയമയവും പുതുമയുടെ ആവശ്യകതയും ചർച്ച ചെയ്തപ്പോൾ ഉൾക്കൊള്ളിച്ചിരുന്നു പ്രസിദ്ധീകരണങ്ങൾ ഐ പി യുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ഒരു ഉറവിടമാണ് കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ ഒരു നീണ്ട പട്ടിക നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പേറ്റന്റ് നേടാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരു സ്ക്രീനിംഗ് നടത്തണമെന്ന് പ്രൊഫസർമാരെ അറിയിക്കുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരണത്തിന് മുൻപ് പ്രസിദ്ധീകരണങ്ങളെ ഐ പി ക്കായി സ്ക്രീൻ ചെയ്യുന്ന ഒരു സംസ്കാരം സജ്ജമാക്കും അതായതു വാണിജ്യ മൂല്യമുള്ള ഗവേഷണ ഫലങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഐ പി ഇന്റലിജൻസ് ആദ്യം ചെയ്യുന്നത് വെളിപ്പെടുത്തലുകളുടെ വാണിജ്യപരമായ സാധ്യതകൾ വിലയിരുത്തുന്നതാണ് രണ്ടാം ഭാഗം അതിനാൽ ഒരു പ്രൊഫസറോ ഗവേഷണ സംഘമോ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നതും വാണിജ്യപരമായ സാധ്യതകൾ വിലയിരുത്തുന്നതും ഐ പി കേന്ദ്രത്തിന്റെ ജോലിയാണ് എന്നാൽ മൂല്യനിർണ്ണയം നിങ്ങൾ ഗവേഷണത്തിന്റെ നേട്ടങ്ങൾ അതായത് ഗവേഷണ ഫലങ്ങളുടെ നേട്ടങ്ങൾ കൊയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് വിലയിരുത്തൽ എന്നത് കണ്ടെത്തലിന്റെ സാധ്യതയോ വാണിജ്യപരമായ പ്രതീക്ഷയോ മനസ്സലിക്കാനുള്ള ശ്രമത്തെ സൂചിപ്പിക്കുന്നു ഇത് വ്യത്യസ്ത രീതികളിൽ ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് നിലവിലുള്ള മാർക്കറ്റ് പ്ലെയറുകളെ അതായത് ഒരു പ്രത്യേക പ്രശ്നപരിഹാരത്തിനായി വിപണിയിൽ നിലവിലുള്ള സേവന ദാതാക്കളെ സമീപിച്ച് ലഭ്യമായ ബദലുകൾ എന്തൊക്കെയാണ് അനുകരണം എളുപ്പമാകുന്നത് എപ്പോൾ ബദലുകൾ ഉപയോഗിക്കാനുള്ള കഴിവ് മുതലായവയെ കുറിച്ച് മനസിലാക്കാം ഈ ഘടകങ്ങളെല്ലാം നിങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഒരു പ്രത്യേക കണ്ടെത്തൽ വിപണിയിൽ എത്തുമ്പോൾ അതിന്റെ വാണിജ്യ സാധ്യത എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു ഇത് ഒരു മൂല്യനിർണ്ണയം മാത്രമാണ് ഇപ്രകാരം വില നിർണയിക്കുന്നത് നല്ലതാണ് അതിലൂടെ നിങ്ങൾക്ക് പണച്ചിലവ് എവിടെയാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സഹായകമാകുന്നു അതിന്റെ സ്വഭാവമനുസരിച്ച് പേറ്റന്റ് നേടുന്നത് ചെലവേറിയ പ്രക്രിയയാണ് അത് വിഭവങ്ങൾ ഉൾപെട്ടതും സമയചിലവുള്ളതുമായ ഒരു പ്രക്രിയയാണ് പുതിയ ടൈംലൈനുകൾ കണക്കിലെടുക്കുമ്പോൾ ഇതിന് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ സമയമെടുക്കാം ഒരു പേറ്റന്റ് അനുവദിക്കപ്പെട്ട ശേഷം മാത്രമേ അതിനെ പൂർണ്ണമായും വാണിജ്യവത്ക്കരിക്കാൻ കഴിയൂ സിസ്റ്റം സജ്ജമാക്കിയിരിക്കുന്ന രീതി കാരണം സർവകലാശാല ഒരു മാസ്റ്റർ പ്ലാൻ തയാറാകേണ്ടത് ആവശ്യമായി വരുന്നു നിക്ഷേപസാദ്ധ്യതയുള്ള വരുമാനം ലഭിക്കാനിടയുള്ള മറ്റേതൊരു ബിസിനസ്സ് പ്ലാൻ പോലെ തന്നെ ഇവിടെയും ഒരു ബിസിനസ്സ് പ്ലാൻ തയ്യാറാക്കുന്നു അതിനാൽ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിനുമുമ്പ് ഐ പി കേന്ദ്രം ഈ പ്രത്യേക കണ്ടുപിടുത്തത്തിന്റെ വാണിജ്യവത്ക്കരണ സാധ്യതയെന്താണ് അത് ഇന്ത്യയിൽ പേറ്റന്റ് ചെയ്യപ്പെടേണ്ടതാണോ വിദേശത്താണോ എന്നതിനെയൊക്കെ ആസ്പദമാക്കി ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടി വരും കാരണം അത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പി സി ടി റൂട്ട് അല്ലെങ്കിൽ കൺവെൻഷൻ റൂട്ട് എന്ന രീതിയിലായിരിക്കും ചെയ്യണ്ടത് ഇപ്രകാരം ചെയ്യുമ്പോൾ വാണിജ്യവത്കരണത്തിന് മുൻപ് പേറ്റന്റിങ് നടത്തുന്നതിനുള്ള നിക്ഷേപ ചിലവ് കുതിച്ചുയരാൻ സാദ്ധ്യതയുണ്ട് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നത് ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചു കൊണ്ടായിരിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ സാങ്കേതികവിദ്യയുടെ മൂല്യം എത്രയായിരിക്കും സാങ്കേതികവിദ്യ വിപണിയിൽ എത്തിക്കുന്നതിന് നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കണം പേറ്റന്റുകളിലൂടെ കണ്ടെത്തലിനെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ചെലവഴിക്കേണ്ട തുക മുതലായവയെല്ലാം പരിഗണിക്കണം അപ്രകാരം നിക്ഷേപിക്കുന്ന തുക തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വരവ് ചിലവ് വിശകലനവും ആവശ്യമാണ് ചില സാഹചര്യങ്ങളിൽ സർവ്വകലാശാലകളും സ്ഥാപനങ്ങളും ഒരു വരവ് ചിലവ് വിശകലനം നടത്താൻ ഇടയില്ല പേറ്റന്റുകളെ വിവിധ വിഭാഗങ്ങളായി കണക്കാക്കുന്ന പ്രവണതയാണ് പൊതുവെ കാണപ്പെടുന്നത് കാരണം അപ്രകാരം വിഭാഗങ്ങൾക്കുള്ളിൽ കണക്കാക്കുമ്പോൾ ഒരു വിഭാഗത്തിനുള്ളിൽ വരുന്ന എല്ലാത്തിനെയും ഉൾപ്പെടുത്തി ഒരുമിച്ച് വാണിജ്യവത്കരിക്കാൻ സാധിക്കും അപ്രകാരം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിജയകരമായവ അല്ലെങ്കിൽ വാണിജ്യപരമായി മൂല്യവത്തായവയെയും വാണിജ്യപരമായി അത്ര മൂല്യമിമില്ലാത്തതുമായ പേറ്റന്റുകളെയും ഒരുമിച്ച് വിൽക്കാൻ കഴിയും അതായത് വിഭാഗങ്ങളാക്കി വിൽക്കുന്നതിലൂടെ അപകടസാധ്യതകളെ തടയാനായി സർവ്വകലാശാലകളും സ്ഥാപനങ്ങളും ശ്രമിക്കുന്നു വാണിജ്യവത്കരിക്കാത്ത പേറ്റന്റുകളുടെ വില സബ്സിഡി ചെയ്യുന്നതിനായി വിജയകരമായ പേറ്റന്റുകളുടെ വരുമാനം ഇവിടെ ഉപയോഗിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാണിജ്യമുണ്ടാക്കണമെങ്കിൽ പേറ്റൻറ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായി വാണിജ്യപരമായ സാധ്യതകളെ വിലയിരുത്തേണ്ടതുണ്ട് അത് വളരെ ചിലവുള്ളതാണ് ഒരിക്കൽ നിങ്ങൾ പേറ്റന്റിംഗിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ പണം പ്രോസിക്യൂഷന് വേണ്ടിയും രജിസ്ട്രേഷന് വേണ്ടിയും മാത്രമല്ല രജിസ്ട്രേഷനുശേഷം പുതുക്കലിലൂടെ പേറ്റന്റിനെ സജീവമായി നിലനിർത്താൻ ആവശ്യമായ പണമായും ചിലവാക്കേണ്ടതായി വരും ഇത് മാത്രമല്ല പുതുക്കൽ ഫീസും ഉണ്ടാകും ഇതെല്ലം ഉൾപ്പെട്ടിരിക്കുന്ന ടൈംലൈനിനെക്കുറിച്ചുള്ള ഒരു ധാരണയും അതിൽ ഉൾപ്പെടുന്ന ചെലവും അടങ്ങുന്നതാണ് ഒരു ബിസിനസ് പ്ലാൻ അതിനാൽ കണ്ടുപിടുത്തത്തിന്റെ വാണിജ്യപരമായ സാധ്യതകൾ മനസിലാക്കിക്കൊണ്ട് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായി ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് ഐ പി ഇന്റലിജൻസ് സംബന്ധിച്ച് ഒരു ഐ പി കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം ഐ പി സംരക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നതാണ് ബൌദ്ധിക സ്വത്തവകാശം ഒരു ഐ പി വഴി സംരക്ഷിക്കേണ്ട ആവശ്യമില്ലാത്ത കേസുകളും ഉണ്ട് ഏത് തരത്തിലുള്ള ഐ പിയാകണം അല്ലെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് ആയിരിക്കേണമോ അതോ കൂടുതൽ കാലത്തേക്ക് അത് പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ മുതലായ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത് ഐ പി കേന്ദ്രമാണ് ഇക്കാര്യങ്ങളിൽ ഐ പി കേന്ദ്രത്തെ സഹായിക്കാൻ ഒരു കമ്മിറ്റിയും ഉണ്ടാകും ഇത് ഒരു ഐ പി വഴി സംരക്ഷിക്കണമോ എന്നത് ഐ പി കേന്ദ്രം എടുക്കേണ്ട തീരുമാനമാണ് സർവ്വകലാശാലയ്ക്ക് എല്ലായെപ്പോഴും അവരുടെ ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്യ്രം ഉണ്ട് ഐ പി വഴി അതിനെ പരിരക്ഷിക്കില്ലെന്ന് അവർ ഒരു തീരുമാനം എടുത്താൽ അവർക്ക് ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാനും അതിന്റെ ക്രെഡിറ്റ് നേടാനും കഴിയും ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത പേറ്റന്റെബിലിറ്റി തിരയൽ റിപ്പോർട്ട് പ്രസക്തമാകുന്നത് എല്ലാ കേസുകൾക്കും ആഴത്തിലുള്ള തിരച്ചിലോ തിരയൽ വിശകലനമോ നടത്താൻ കഴിയില്ല മാത്രമല്ല തിരച്ചിൽ എന്നത് ലളിതമായും വളരെ വിശദമായ രീതിയിലും ചെയ്യേണ്ട ഒന്നാണ് അതിനാൽ പേറ്റന്റ് ഫയൽ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് പേറ്റന്റബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് അനിവാര്യമാണെന്ന് നിങ്ങൾ കണ്ടു ഐ പി കേന്ദ്രം അതിന്റെ ഐ പി ഇന്റലിജൻസിന്റെ ഭാഗമായി മാർക്കറ്റ് റിസേർച്ചിൽ ഏർപ്പെട്ടിരിക്കും മാർക്കറ്റ് റിസർച്ച് എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് വ്യവസായമേഖലയിലെ പങ്കാളികളെ നിരന്തരം അന്വേഷിക്കുന്നതിനെക്കുറിച്ചും ഗവേഷണ ഫലങ്ങൾ വാണിജ്യവത്ക്കരിക്കുന്നതിനെക്കുറിച്ചും താൽപ്പര്യമുള്ള തരത്തിൽ അവർക്ക് ഏത് സാങ്കേതികവിദ്യയാണ് നൽക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനെക്കുറിച്ചും ആണ് വ്യവസായ മേഖലയിലെ പങ്കാളികളുമായുള്ള സ്വതന്ത്ര ചർച്ചയിലൂടെ ഇത് സംഭവിക്കാം ഐ പി കേന്ദ്രം താൽപ്പര്യമുള്ള കക്ഷികളെ തിരിച്ചറിയുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യും ഇത് കൺസൾട്ടൻസിയിൽ നിന്നോ ഇതിനകം സർവകലാശാലയിൽ നടത്തപ്പെട്ടിട്ടുള്ള മറ്റ് പ്രോജെക്ടുകളിലൂടെയോ സംഭവിക്കാവുന്നതാണ്